ഹലോ ടാഗോറിന്റെ കാബൂളിവാല യുടെ സ്പേഷ്യലിറ്റി പ്ലോട്ടിംഗ് ചെയ്യുന്ന ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാഷണത്തിൽ ഒരു ഫിക്ഷനിലെ ക്രമീകരണത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കും എന്താണ് കൃത്യമായി ഒരു ക്രമീകരണം ക്രമീകരണം എന്നാൽ കഥയുടെ പശ്ചാത്തലം രൂപപ്പെടുത്തുന്ന സമയവും നാടകങ്ങളും അർത്ഥമാക്കുന്നു ക്രമീകരണം ചിലപ്പോൾ ഒരു ആഖ്യാതാവിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു വാസ്തവത്തിൽ ഇതിന് ഒരു ഉത്തേജക പങ്ക് വഹിക്കാൻ കഴിയും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ക്രമീകരണത്തിന് പ്ലോട്ടിനെ സങ്കീർണ്ണമാക്കുകയും ചിലപ്പോൾ അത് പരിഹരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ആഖ്യാന പ്രവർത്തനങ്ങൾ ഉണ്ടാകാം ക്രമീകരണത്തെക്കുറിച്ചുള്ള ഒരു നല്ല വിവരണം ഒരു കഥയുടെ വിജയത്തിന് പ്രധാനമാണ് ചിലപ്പോൾ അത്തരം ആവേശകരമായ വിവരണം കഥയുടെ സംഭവങ്ങളെ കൂടുതൽ അടുത്തറിയാനും പിന്തുടരാനും വായനക്കാരെ പ്രോത്സാഹിപ്പിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ക്രമീകരണം സാങ്കൽപ്പിക ലാൻഡ്സ്കേപ്പിനെ തീവ്രമാക്കുന്നു കൂടാതെ എന്താണ് സംഭവിക്കുന്നതെന്ന് ദൃശ്യവൽക്കരിക്കാനും പ്രതീകങ്ങളുമായി നന്നായി ബന്ധിപ്പിക്കാനും ക്രമീകരണങ്ങൾ വായനക്കാരനെ സഹായിക്കും സത്യത്തിൽ കഥാലോകം കൂടുതൽ ശക്തമാണെങ്കിൽ കഥയിൽ സംഭവിക്കുന്നതിനെ പറ്റിയുള്ള തിരിച്ചറിവ് വായനക്കാർക്ക് കൂടുതലായിരിക്കും വാസ്തവത്തിൽ ക്രമീകരണം ഒരു കഥയുടെ പ്രമേയവുമായോ പ്രധാന ആശങ്കയുമായോ വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ചില നിരൂപകർ അഭിപ്രായപ്പെടുന്നു ഉദാഹരണത്തിന് നമ്മുടെ കേസിൽ ടാഗോറിന്റെ കാബൂളിവാല യിൽ ഒരു എഴുത്തുകാരന്റെ വലിയ വീടിനെക്കുറിച്ചുള്ള പരാമർശം ഈ കഥയുടെ പ്രധാന പ്രമേയങ്ങളിലൊന്നായ വീടും ഭവനരഹിതതയും സംബന്ധിച്ച ആശയങ്ങൾ നിർദ്ദേശിക്കുന്നു വാസ്തവത്തിൽ മിനിക്കും അവളുടെ അച്ഛനും ഒരു വീടുണ്ട് എന്നാൽ കാബൂളിവാലയ്ക്ക് അതില്ല വാസ്തവത്തിൽ അവൻ ഒരു സ്ഥിരം സഞ്ചാരിയാണ് ക്രമീകരണം എന്നത് ഒരു സ്ഥലം അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം എന്നും അർത്ഥമാക്കാം വാസ്തവത്തിൽ ഒരാൾ പതിവായി ചോദിക്കേണ്ട ചോദ്യം കഥയുടെ ആക്ഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നതാണ് ഒരു വിദ്യാർത്ഥിയോ വായനക്കാരനോ ആദ്യമായി ഒരു കഥയിൽ വരുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് എവിടെ വെച്ചാണ് ആക്ഷൻ നടക്കുന്നത് ഇപ്പോൾ ടാഗോറിന്റെ കാബൂളിവാലയുടെ ഒരു സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെയാണ് ലൊക്കേഷൻ അനുമാനിക്കുന്നത് എങ്ങനെ ലൊക്കേഷൻ കണ്ടുപിടിക്കാം ഈ കഥ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മോട് പറയുന്ന സൂചനകൾ എന്തൊക്കെയാണ് രചയിതാവായ രവീന്ദ്രനാഥ ടാഗോറാണ് ആദ്യ സൂചന പത്തൊൻപതാം നൂറ്റാണ്ടിലെ പ്രത്യേകിച്ച് ബംഗാളിയുമായി ബന്ധപ്പെട്ട ഒരു എഴുത്തുകാരനാണെന്ന് നമ്മിൽ മിക്കവർക്കും അറിയാം അതിനാൽ എഴുത്തുകാരനെക്കുറിച്ചുള്ള ഈ വസ്തുതകൾ വായനക്കാരന് അവന്റെ അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ ആ കഥ വരച്ചിരിക്കുന്ന തരത്തിലുള്ള ക്യാൻവാസുകൾ പുനർനിർമ്മിക്കുന്നതിനുള്ള സൂചനകളോ ആംഗ്യങ്ങളോ ആണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ കഥയുടെ കേന്ദ്രത്തിൽ ഒരു വലിയ വീടുണ്ട് വാസ്തവത്തിൽ പല സംഭവങ്ങളും വീടിനുള്ളിലോ വീടിനടുത്തോ സ്ഥിതി ചെയ്യുന്നു നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം ഈ വീടിന്റെ ഹൃദയഭാഗത്ത് ഒരു സ്റ്റുഡിയോ ഉണ്ടെന്നും കേന്ദ്ര ബാലകഥാപാത്രമായ മിനി അവളുടെ ചുറ്റുമുള്ള കഥാപാത്രങ്ങളുമായി പുലർത്തുന്ന ബന്ധത്തിന് ചില കാര്യമായ സ്വാധീനം ചെലുത്തുന്നുവെന്നും നാം ഓർക്കണം കൂടാതെ പെൺകുട്ടിയുടെ മിനിയുടെ പിതാവ് ഒരു പ്രഭുവാണ് ഒരു പ്രഭുവിന് താരതമ്യേനെ അല്ലെങ്കിൽ സാധാരണയായി ഒരു വലിയ വീടുണ്ട് അപ്പോൾ കാബൂളിവാല എന്ന കഥ കൃത്യമായി എപ്പോഴാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കഥയിലെ പ്രാധാന്യമുള്ള വശങ്ങൾ എന്തൊക്കെയാണ് ഈ കഥയിലെ പ്രധാന സൈറ്റുകൾ ഇവയാണ് ഒരു സ്റ്റുഡിയോയുണ്ട് ഒരു വലിയ വീടുണ്ട് ഈ സൈറ്റുകൾ ആഖ്യാനത്തിലെ പ്രധാന സംഭവങ്ങൾ ക്രമീകരിക്കാൻ പതിവായി ഉപയോഗിക്കാറുണ്ട് പെൺകുട്ടിയുടെ പിതാവ് മിനി ഒരു പ്രഭുവാണെന്നും പ്രഭുക്കന്മാർ സാധാരണയായി വലിയ വീടുകളിലാണ് താമസിക്കുന്നതെന്നും ഓർക്കുന്നു അതിനാൽ വീടിനും പ്രത്യേകിച്ച് സ്റ്റുഡിയോയ്ക്കും ഈ കഥയിൽ പ്രധാന തീമാറ്റിക് പ്രവർത്തനങ്ങൾ ഉണ്ട് ഇപ്പോൾ ഈ കഥയിൽ ഒരു വലിയ വീടുണ്ടെന്ന് കൃത്യമായി എങ്ങനെ അറിയാം അത് അങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്ന ചില ഉദാഹരണങ്ങൾ കഥയിലുണ്ട് ഉദാഹരണത്തിന് കഥയിൽ നിന്നുള്ള ഒരു ഭാഗം ഞാൻ വായിക്കട്ടെ "വീടിന്റെ മുറ്റത്ത് മുളങ്കാടുകളിൽ ഒരു കൂടാരം സ്ഥാപിച്ചിരുന്നു എല്ലാ മുറികളുടെയും പോർട്ടിക്കോയിൽ നിലവിളക്കുകളുടെ മണിനാദങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു കോലാഹലങ്ങൾക്ക് അവസാനമില്ല " അതിനാൽ കഥയുടെ അവസാന ഘട്ടങ്ങളിൽ നിന്ന് എടുത്ത ഒരു ഉദ്ധരണിയാണിത് കഥയുടെ അവസാനം ഇപ്പോൾ വളർന്നുവന്ന മിനിയുടെ വിവാഹ ആഘോഷങ്ങളുണ്ട് അതിനാൽ കഥയുടെ അവസാനത്തിൽ അവൾ വധുവാണ് അവളുടെ വീട് എഴുത്തുകാരന്റെ വീട് അവളുടെ പിതാവിന്റെ വീട് ഗംഭീരമായ രീതിയിൽ അലങ്കരിക്കപ്പെടുന്നു കൂടാതെ വീട്ടിൽ ഒരു നടുമുറ്റമുണ്ടെന്നും എല്ലാ മുറികളുടെ മുന്നിലും പോർട്ടിക്കോകളുണ്ടെന്നും അവ നിലവിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടെന്നും ദയവായി ശ്രദ്ധിക്കുക എല്ലാ മുറികളിലേക്കും ഉള്ള പ്രവേശന കവാടങ്ങൾക്ക് മുന്നിൽ തൂക്കിയിടാൻ വിലകൂടിയ വസ്തുക്കളുണ്ട് അതിനാൽ മിനിയും അവളുടെ അച്ഛനും അമ്മയും താമസിക്കുന്ന ഈ പ്രത്യേക വീടിന്റെ സ്കെയിൽ ആഡംബര സ്കെയിൽ നെക്കുറിച്ച് ഇത് നിങ്ങൾക്ക് ഒരു സൂചന നൽകുന്നു 'റമ്പസിന്' അവസാനമില്ലായിരുന്നുവെന്നും റമ്പസ് എന്നാൽ ബഹളം എന്ന അർത്ഥമുള്ള പദമാണെന്നും പോർട്ടിക്കോ എന്നാൽ മൂടിയ പ്രവേശന കവാടം എന്നും ലേഖകൻ പറയുന്നു അതിനാൽ ഈ വാക്കാലുള്ള സൂചകങ്ങൾ എഴുത്തുകാരൻ അവളുടെ കഥയെ അവതരിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ സ്ഥല ഘടനയെക്കുറിച്ച് ഒരു സൂചന നൽകുന്നു ഇനി നമുക്ക് കഥയിലെ മറ്റ് സ്പേഷ്യൽ സൂചകങ്ങളും കഥയുടെ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ അവയുടെ പ്രാധാന്യവും നോക്കാം കഥയുടെ തുടക്കത്തിൽ തന്നെ സംഭവിക്കുന്ന വളരെ രസകരമായ ഒരു ഉദ്ധരണിയാണിത് ഒരു ദിവസം രാവിലെ ഞാൻ എന്റെ നോവലിന്റെ പതിനേഴാം അധ്യായം എഴുതാൻ തുടങ്ങിയപ്പോൾ മിനി മുറിയിലേക്ക് നടന്നു തുടങ്ങി അച്ഛാ നമ്മുടെ കാവൽക്കാരനായ രാംദയാലിന് കാക്ക എന്ന വാക്ക് ഉച്ചരിക്കാൻ പോലും അറിയില്ല" അതിനാൽ ഇവിടെയുള്ള 'ഞാൻ' ഈ കൊച്ചു പെൺകുട്ടി മിനിയുടെ പിതാവാണ് അവൻ തന്റെ മുറിയിലിരുന്ന് ഒരു കഥ എഴുതുകയാണ് വാസ്തവത്തിൽ അവൻ തന്റെ നോവലിന്റെ 17 ാം അധ്യായത്തിലാണ് അതിനാൽ അവൻ ഒരു എഴുത്തുകാരൻ ഒരു നോവലിസ്റ്റ് ആണ് കൂടാതെ മിനി എന്ന കൊച്ചു പെൺകുട്ടി മുറിയിലേക്ക് നടന്നു അവൾ ഒരു സംഭാഷണം ആരംഭിക്കുന്നു ഈ പ്രത്യേക വ്യക്തി രാംദയാൽ കാവൽക്കാരന് ഒരു പ്രത്യേക വാക്ക് എങ്ങനെ ഉച്ചരിക്കണമെന്ന് അറിയില്ലെന്ന് അവൾ പറയുന്നു കഥയിലെ രചയിതാവ് പെൺകുട്ടിയുടെ പിതാവ് സാധാരണയായി നോവലുകൾ എഴുതാൻ സമയം ചെലവഴിക്കുന്ന ഒരു മുറി ഉണ്ടെന്ന് നമുക്കറിയാം അതിനാൽ സ്റ്റുഡിയോ വളരെ പരോക്ഷമായി ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നു നീ പോയി ഭോലയുടെ കൂടെ കളിക്കൂ എനിക്ക് ഇപ്പോൾ കുറച്ച് ജോലിയുണ്ട് എഴുത്ത് തുടരാൻ ആഗ്രഹിക്കുന്നതിനാൽ അച്ഛൻ തന്റെ കൊച്ചു പെൺകുട്ടിയെ പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നു എഴുത്ത് മേശയുടെ അരികിൽ ഒരു ഇടം ഉണ്ട് ഇത് അച്ഛൻ എഴുതാൻ സമയം ചെലവഴിക്കുന്ന ഒരു മുറിയാണെന്ന വസ്തുതയെ ഇത് വീണ്ടും സൂചിപ്പിക്കുന്നു അതിനാൽ അവന്റെ കാലിൽ അവന്റെ എഴുത്ത് മേശയോട് ചേർന്ന് ഇരുന്നു അവളുടെ കൈകളും കാൽമുട്ടുകളും ഉപയോഗിച്ച് ഒരു നഴ്സറി റൈം ദ്രുതഗതിയിൽ ആലപിച്ചുകൊണ്ട് ഒരു കളി കളിക്കാൻ തുടങ്ങി അതിനാൽ പിതാവിന് അവന്റെ മുറിയിൽ ജോലിയുണ്ട് പക്ഷേ മകൾ അവളുടെ പിതാവിന്റെ ആവശ്യങ്ങൾക്കായി സ്ഥലം വിടാൻ വിസമ്മതിക്കുന്നു അവൾ കഴിയുന്നത്ര സമയം ചെലവഴിക്കാൻ ശ്രമിക്കുന്നു അവളുടെ പിതാവിനോട് കഴിയുന്നത്ര അടുത്ത് ഇപ്പോൾ മുറിക്ക് പുറത്ത് വീടിന് പുറത്ത് എന്തോ ബഹളം കേൾക്കുന്നു മിനി അവളുടെ കളി പെട്ടെന്ന് നിർത്തി മിനി മെയിൻ റോഡിനെ അഭിമുഖീകരിക്കുന്ന ജനാലയുടെ അടുത്തേക്ക് ഓടി അവളുടെ സ്വരത്തിന്റെ ഉച്ചിയിൽ വിളിച്ചു തുടങ്ങി കാബൂളിവാല ഓ കാബൂളിവാല ഈ ഉദ്ധരണിയിൽ ചില സ്ഥലസൂചനകളുണ്ട് അത് മുറിയെയും വീടിനെയും വീണ്ടും സന്ദർഭോചിതമാക്കുന്നു ജാലകം പ്രധാന റോഡിനെ അഭിമുഖീകരിക്കുന്നുവെന്നത് ശ്രദ്ധിക്കുക അതിനാൽ ഇത് വീട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മുറിയാണ് പ്രധാന റോഡിൽ ഒരു ചെറിയ തെരുവിലല്ല ഇതിന് കാര്യമായ കാഴ്ചപ്പാടുണ്ട് കാബൂളിവാലയുടെ ശബ്ദം കേട്ട് മകൾ അവനോട് അകത്തേക്ക് വരാൻ ആവശ്യപ്പെടുന്നു ഇപ്പോൾ നമ്മൾ പഠന സ്ഥലത്തെ എങ്ങനെ വ്യാഖ്യാനിക്കും കഥയുടെ വലിയ ആശങ്കകളുടെ അടിസ്ഥാനത്തിൽ പഠന സ്ഥലത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് അവർ എന്താണ് നിർദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം പഠന ഇടം അച്ഛനും മകളും തമ്മിലുള്ള സാമീപ്യത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം വളരെ തീവ്രവും വളരെ അടുത്തതുമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അച്ഛൻ തന്റെ നോവലുകൾ എഴുതുമ്പോൾ മകൾ അവന്റെ കാൽക്കൽ കളിക്കുന്നു ഇവർ രണ്ടും തമ്മിൽ ശ്രേണിപരമായ ബന്ധവുമുണ്ട് എന്നാൽ ഇവിടെ വൈകാരിക ചേർച്ചയോ വൈകാരിക ബന്ധമോ ആണ് ഈ പ്രത്യേക ഉദ്ധരണിയിൽ ഏറ്റവും പ്രബലമായത് ഞാൻ പറഞ്ഞതുപോലെ പഠനമുറിയോ സ്റ്റുഡിയോയോ അല്ലെങ്കിൽ അച്ഛൻ ഇരുന്നു എഴുതുന്ന സ്ഥലമോ ആണ് വീട്ടിലെ പ്രധാന ഇടം വീണ്ടും ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമുണ്ട് കാരണം അത് തെരുവിനെയും അഭിമുഖീകരിക്കുന്നു പൊതുമണ്ഡലത്തിൽ കാര്യങ്ങൾ നടക്കുന്നിടമാണ് കുറഞ്ഞത് ഈ പ്രത്യേക കഥയുടെ പശ്ചാത്തലത്തിലെങ്കിലും കാരണം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഈ പ്രത്യേക തെരുവിലൂടെയാണ് മിനി ആദ്യമായി കാബൂളിവാല നടക്കുന്നത് കാണുന്നത് കാബൂളിവാലയെ പോലീസ് കൈയ്യിൽ കെട്ടി കൊണ്ടുപോകുന്നത് അച്ഛൻ ശ്രദ്ധിക്കുന്ന തെരുവാണിത് അതിനാൽ ഈ പ്രത്യേക കഥയിലെ രസകരവും പ്രധാനപ്പെട്ടതുമായ ചില തരം സംഭവങ്ങളുടെ വേദിയായി തെരുവ് പ്രവർത്തിക്കുന്നു ഇനി ഞാൻ മിനിയുടെ എഴുത്തുകാരനും പിതാവുമായ അദ്ദേഹം എഴുത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നോവലിനെക്കുറിച്ചുള്ള മെറ്റാനാരേറ്റിവിലേക്ക് ബൃഹദാഖ്യാനത്തിലേക്ക് മടങ്ങാം എഴുത്തുകാരൻ വിവരിക്കുന്നു പിതാവ് വിവരിക്കുന്നു എന്റെ നോവലിന്റെ പതിനേഴാം അധ്യായത്തിൽ പ്രതാപ് സിംഗ് ഈ സമയം ജയിൽ ഹൌസിന്റെ ഉയർന്ന ബാൽക്കണിയിൽ നിന്ന് കാഞ്ചൻമാലയുമായി രാത്രിയുടെ ഇരുട്ടിൽ താഴെയുള്ള നദിയിലേക്ക് ചാടുകയായിരുന്നു അച്ഛൻ എഴുതുന്ന കഥയെക്കുറിച്ചുള്ള പരാമർശമാണത് അതിനാൽ ഇത് കാബൂളിവാലയുടെ ഈ വലിയ കഥയ്ക്കുള്ളിലെ ഒരു കഥയാണെന്ന് നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് കൂടാതെ ഇതിലെ വളരെ രസകരമായ കാര്യം വീണ്ടും സ്ഥലകാലമാണ് നോവലിലെ നായകനായ പ്രതാപ് സിംഗ് ഒരു ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് വളരെ രസകരമാണ് കാഞ്ചനമാല എന്ന സ്ത്രീ കഥാപാത്രത്തോടൊപ്പം അയാൾ താഴെയുള്ള നദിയിലേക്ക് രക്ഷപ്പെടുന്നു അവർ ഉയർന്ന ബാൽക്കണിയിൽ നിന്ന് രാത്രിയുടെ ഇരുട്ട്ലേക്ക് പ്രത്യേകിച്ച് നദിയിലേക്ക് ചാടുകയാണ് അതിനാൽ ഇത് ആദ്യ കാഴ്ചയിൽ തന്നെ വളരെ സാഹസികമായ ഒരു കഥയാണ് ഈ മെറ്റാനാരേറ്റീവിലെ മറ്റ് രസകരമായ കാര്യങ്ങൾ ഇതാണ് ഇത് സംഭവിക്കുന്നു പിതാവ് സൃഷ്ടിച്ച സാങ്കൽപ്പിക ലോകത്തെക്കുറിച്ചുള്ള ഈ പരാമർശം കാബൂളിവാലയുടെ രൂപത്തിന്റെ പ്രവേശനത്തിന് മുമ്പ് സംഭവിക്കുന്നു ഇത് വളരെ രസകരമായി സ്ഥാപിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ അതിൽ സാഹസികതയും പ്രണയവും നിറഞ്ഞിരിക്കുന്നു ചാടിയിറങ്ങുന്ന പ്രതാപ് സിങ്ങിന്റെ രൂപം നമുക്കുണ്ട് ഒരുപക്ഷേ തന്റെ കാമുകിയോടൊപ്പം ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നു അതിനാൽ രക്ഷപ്പെടലിന്റെ തീമുകളും ഫാന്റസിയുടെ തീമുകളും ഉണ്ട് രാത്രിയിൽ ഒരു ബാൽക്കണിയിൽ നിന്ന് നദിയിലേക്ക് ചാടുന്നത് സങ്കൽപ്പിക്കുക ഒരു കഥയിൽ ഇതിന് എത്രത്തോളം റൊമാന്റിക് ലഭിക്കും അതിനാൽ ഈ പ്രത്യേക സാങ്കൽപ്പിക വിവരണത്തിൽ സാഹസികതയെയും പ്രണയത്തെയും കുറിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട് കാബൂളിവാലയുടെ ആഖ്യാനത്തിന്റെ ഗതിയിൽ ഇത് വളരെ തന്ത്രപരമായി സ്ഥിതിചെയ്യുന്നു അതിനാൽ മിനിയും അവളുടെ എഴുത്തുകാരനായ പിതാവും നിറഞ്ഞ കാബൂളിവാലയുടെ വലിയ കഥയിൽ ഈ മെറ്റാനാരേറ്റീവിന്റെ പ്രമേയപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നമ്മൾ ആഗ്രഹിച്ചേക്കാം ഈ പ്രത്യേക രംഗം സാങ്കൽപ്പിക ലോകവും യഥാർത്ഥ ലോകവും പരസ്പരം പ്രതിഫലിപ്പിക്കുന്ന ഒരു ഘട്ടമായി ഞാൻ വ്യാഖ്യാനിക്കും അതിനാൽ ടാഗോറിന് ഒരു സാങ്കൽപ്പിക ലോകം ഒരു ആന്തരിക സാങ്കൽപ്പിക ലോകം ഒരു കഥയ്ക്കുള്ളിലെ ഒരു കഥ പുറം കഥയുമായി സംവദിക്കുന്ന കഥയിലെ പോയിന്റ് ഇതാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് ഉൾച്ചേർത്ത ആഖ്യാനം ആകാം കാബൂളിവാല കഥ ബാഹ്യ ആഖ്യാനമായി ഒരു ചെറിയ എംബഡഡ് ആഖ്യാനം അതിനാൽ ഇവ രണ്ടും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള തീമാറ്റിക് ബന്ധം ഉണ്ടായിരിക്കാം അവ എന്താണെന്ന് നമുക്ക് നോക്കാം എന്റെ മുന്നിലുള്ള ഒരു പ്രധാന വ്യാഖ്യാനം നായകന്റെ രക്ഷപ്പെടൽ പ്രതാപ് സിംഗ് തന്റെ കാമുകിക്കൊപ്പം അഥവാ കേന്ദ്ര സ്ത്രീ കഥാപാത്രത്തോടൊപ്പമുള്ള സാഹസികത അവരുടെ രക്ഷപ്പെടലിന് സമാന്തരമാണ് അതായത് കാബൂളിവാലയുമായുള്ള ബന്ധത്തിലേക്ക് മിനിയുടെയും അവളുടെ അച്ഛന്റെയും ഒളിച്ചോട്ടം അങ്ങനെ രാത്രിയുടെ ഇരുട്ടിൽ പ്രതാപ് സിംഗ് നദിയിലേക്ക് ചാടുന്നത് പോലെ കാബൂളിവാലയുടെ ലോകത്തേക്ക് ചാടുന്നു അതിനാൽ കാബൂളിവാല എങ്ങനെയെങ്കിലും പെൺകുട്ടിയെയും അവളുടെ പിതാവിനെയും വീട്ടുകാരെയും സാഹസികതയുടെയും ഫാന്റസിയുടെയും ഒരു വിവരണത്തിലേക്ക് കൊണ്ടുപോകുന്നു നിങ്ങൾ കഥ ഓർക്കുകയാണെങ്കിൽ ഈ അപരിചിതനെക്കുറിച്ച് അമ്മയ്ക്ക് തന്നെ സംശയമുണ്ട് അതിനാൽ ഈ കാബൂളിവാല മിനിയെയും അവളുടെ അച്ഛനെയും മാത്രമല്ല ബാധിക്കുന്നത് കഥയിലെ മറ്റ് കഥാപാത്രങ്ങളെയും കാബൂളിവാല സ്വാധീനിക്കുന്നു അതിനാൽ കഥയിലെ വ്യത്യസ്ത കഥാപാത്രങ്ങളുമായി കാബൂളിവാലയുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മതകളുണ്ട് ഇപ്പോൾ മെറ്റനറേറ്റീവിലെ ജയിൽ ഹൌസിനെക്കുറിച്ചുള്ള പരാമർശം വളരെ രസകരമാണ് നമ്മൾ വീണ്ടും മെറ്റാനറേറ്റീവിലേക്ക് മടങ്ങുകയാണെങ്കിൽ പ്രതാപ് സിംഗും കാഞ്ചനമാലയും രക്ഷപ്പെടുന്ന ജയിൽ ഹൌസിനെക്കുറിച്ചാണ് ഈ പരാമർശം ഒരു കുറ്റകൃത്യത്തിന് ഈ കഥയുടെ ഉയർന്ന ഘട്ടത്തിൽ അവൻ ചെയ്യുന്ന ഒരു ഗുരുതരമായ കുറ്റകൃത്യത്തിന് കാബൂളിവാലയെ ജയിലിൽ അടയ്ക്കുന്നതിന്റെ മുൻനിഴലാണ് ഈ ജയിൽ ഹൌസെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു ഈ കുറ്റകൃത്യം വാസ്തവത്തിൽ കഥയിലെ പെൺമക്കളിൽ നിന്ന് അവനെ അകറ്റുന്നു കഥയിലെ പെൺമക്കൾ മിനിയും കഥയുടെ അവസാനത്തിൽ നമ്മൾ കേൾക്കുന്ന കാബൂളിവാലയുടെ സ്വന്തം മകളുമാണ് ഇനി നമുക്ക് മിനിയുടെ പിതാവ് കാബൂളിവാലയെ ആദ്യമായി കണ്ടുമുട്ടുന്നിടത്തേക്ക് മടങ്ങാം ഉദാഹരണത്തിന് അയാൾ കാബൂളിവാലയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നു കാരണം മകൾ ഈ പഴക്കടക്കാരനെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഒന്നും വാങ്ങാതെ അവനെ പറഞ്ഞയക്കാൻ കഴിയില്ല അതിനാൽ അദ്ദേഹം ചെയ്യുന്നത് പിതാവ് കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നു അഫ്ഗാനിസ്ഥാൻ അമീർ അബ്ദുർ റഹ്മാൻ റഷ്യക്കാരുടെയും ബ്രിട്ടീഷുകാരുടെയും അതിർത്തി നയം എന്നിവയുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ ഞാൻ അദ്ദേഹവുമായി ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു അതിനാൽ ഒരിക്കൽ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അവൻ അവനെ നേരിട്ട് പറഞ്ഞയക്കുന്നില്ല എന്നത് വളരെ രസകരമാണ് വാസ്തവത്തിൽ അവൻ ഒരു സംഭാഷണം അലഞ്ഞുതിരിയുന്ന സംഭാഷണം ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്ന ഒരു സംഭാഷണം ഒരു വിശ്രമ സംഭാഷണം എന്നിവ എടുക്കുന്നു അവർ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു മകൾ അവനെ ക്ഷണിക്കുമ്പോൾ തന്നെ ആദ്യമായി കാബൂളിവാലയെ ക്ഷണിക്കാൻ ആഗ്രഹിച്ചില്ലെങ്കിലും പിതാവ് വളരെ വേഗം ഒരു സംഭാഷണക്കാരനാകുന്നത് വളരെ രസകരമാണ് ഇപ്പോൾ ഈ പ്രത്യേക രംഗം നമ്മൾ എങ്ങനെ വായിക്കും ഈ രംഗം വായിക്കാനുള്ള ഒരു മാർഗം ഈ പുരുഷ വ്യക്തികൾ രാഷ്ട്രീയ ഇടങ്ങൾ ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്നതാണ് നമ്മൾ പിന്നോട്ട് പോയാൽ ഈ മുൻ സ്ലൈഡിലേക്ക് പോയാൽ അതിർത്തി നയം അതു രാഷ്ട്രങ്ങളും രാജ്യങ്ങളും തമ്മിലുള്ള അതിരുകളെ സൂചിപ്പിക്കുന്നു അതിനാൽ ഈ സംസാരം രാഷ്ട്രീയ ഇടങ്ങളെക്കുറിച്ചാണ് ഈ സംസാരം അഫ്ഗാനിസ്ഥാൻ പ്രദേശത്തിന്റെ നേതാവിനെക്കുറിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയ നിയന്ത്രണക്കാരനെക്കുറിച്ചോ കൂടിയാണ് വാസ്തവത്തിൽ ഇത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ഒരു സംഭാഷണമാണ് ഒന്നുകിൽ ഒരു രാജ്യത്തിന്റെ നേതാവിനെ പരാമർശിക്കുന്നതിലൂടെ അല്ലെങ്കിൽ മഹത്തായതും ശക്തവുമായ രാഷ്ട്രങ്ങളുടെ അതിർത്തി നയങ്ങളെക്കുറിച്ചുള്ള പരാമർശം വഴി രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ഒരു സംഭാഷണമാണ് ഇപ്പോൾ കഥയിലെ എഴുത്തുകാരൻ മിനിയുടെ അച്ഛൻ യാത്രകളോടുള്ള തന്റെ മനോഭാവത്തെക്കുറിച്ച് സ്വയം പ്രതിഫലിപ്പിക്കുന്നു സ്പേഷ്യലിറ്റി മൊബിലിറ്റി നിശ്ചലത എന്നീ ആശയവുമായി ഇത് വീണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഈ പ്രത്യേക വിവരണത്തിന്റെ പ്രമേയപരമായ വിഷയങ്ങളെക്കുറിച്ച് ഈ ആശയങ്ങൾക്ക് രസകരമായ കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ മിനിയുടെ അച്ഛന് തന്നെക്കുറിച്ച് പറയാനുള്ളത് ഇതാണ് അദ്ദേഹം പറയുന്നു "ഞാൻ വളരെ മന്ദബുദ്ധിയും നിഷ്ക്രിയനുമാണ് എന്റെ ചെറിയ ലോകത്തിൽ നിന്ന് യാത്രചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ഞാൻ പരിഭ്രാന്തനാകും അതുകൊണ്ടാണ് എന്റെ ചെറിയ മുറിയിലെ എഴുത്ത് മേശയുടെ മുന്നിൽ ഇരുന്നു രാവിലെ കാബൂളിൽ നിന്നുള്ള ഈ മനുഷ്യനുമായി സംസാരിച്ച് അൽപ്പം യാത്ര ചെയ്യാനുള്ള ആഗ്രഹം ഞാൻ മന്ദമാക്കുന്നത് അതിനാൽ അയാൾക്ക് യാത്ര ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് എന്നിട്ടും വളരെ രസകരമായി യാത്രയെക്കുറിച്ചോ ചലിക്കുന്നതിനെക്കുറിച്ചോ ചിന്തിക്കുമ്പോൾ അയാൾ പരിഭ്രാന്തനാകും അതിനാലാണ് ആ ആഗ്രഹം കുറയ്ക്കുന്നതും എങ്ങനെയെങ്കിലും പരോക്ഷമായി യാത്ര ചെയ്യുന്നതും കാബൂളിൽ നിന്നുള്ള ഈ അപരിചിതനുമായി അയാൾക്ക് വളരെ താൽപ്പര്യമുള്ള ഇടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ അവർ അവന്റെ ചെറിയ മുറിയിൽ ഇരുന്നു അവർക്ക് ഈ സംഭാഷണം ഉണ്ട് മിനി സ്റ്റുഡിയോയിലോ പഠനത്തിലോ സമയം ചെലവഴിക്കുന്നത് പോലെ കാബൂളിൽ നിന്നുള്ള ഈ മനുഷ്യനും എഴുത്തുകാരനുമായി അടുത്ത് സമയം ചെലവഴിക്കുന്നു അവൻ ഇരിക്കുന്നത് എഴുത്തുകാരന്റെ കാലിൽ അല്ല എന്നാൽ എഴുത്തു മേശയുടെ മുന്നിൽ ആണെന്ന കാര്യം ദയവായി ശ്രദ്ധിക്കുക ഇപ്പോഴും എഴുത്തുകാരനും ഈ അപരിചിതനും തമ്മിൽ വളരെയധികം സാമീപ്യമുണ്ട് രണ്ട് പുരുഷ രൂപങ്ങൾക്കിടയിൽ വികസിക്കുന്ന ഒരു ബന്ധം വീണ്ടും നിർദ്ദേശിക്കുന്നു അതിനാൽ യാത്രയുടെ സന്ദർഭത്തിൽ അവൻ വിരസനും ശാരീരികമായി നിഷ്ക്രിയനുമാണെങ്കിലും അയാൾക്ക് ഒരു ആഗ്രഹമുണ്ട് അത് യാത്രയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് മറ്റ് സ്ഥലങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് തൃപ്തിപ്പെടുത്തുന്നു ഇപ്പോൾ സായാഹ്നത്തിന്റെ ഇരുട്ടിൽ തന്റെ ബാഗി വസ്ത്രങ്ങളും പതിവ് ചാക്കുകളും ധരിച്ച് വീടിന്റെ മൂലയിൽ ആ വലിയ അഫ്ഗാൻ ഇരിക്കുന്നത് കാണുന്നത് എന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ഭയം സൃഷ്ടിക്കും കാബൂളിവാലയുടെ വീടിനുള്ളിലോ പ്രഭുക്കന്മാരുടെ വീടിനുള്ളിലോ ഉള്ള ഈ സ്പേഷ്യലിറ്റിയെക്കുറിച്ചുള്ള സന്ദർഭത്തിലൊഴികെ ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ് അങ്ങനെ സ്റ്റുഡിയോയിൽ എഴുത്തു മേശയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഭയമില്ല സഹവർത്തിത്വം മാത്രം ചില വഴികളിൽ സൌഹൃദം മാത്രം പക്ഷേ അച്ഛൻ നഗരം സന്ദർശിച്ച് മടങ്ങുമ്പോൾ തിരികെ വരുമ്പോൾ ഒരു വലിയ അഫ്ഗാൻ ഒരു വലിയ അഫ്ഗാൻ സന്ധ്യയുടെ ഇരുട്ടിൽ വീടിന്റെ ഒരു മൂലയിൽ ഇരിക്കുന്നത് കണ്ടാൽ സായാഹ്നത്തിൽ മങ്ങിയ വെളിച്ചത്തിൽ ഈ വെളിച്ചം തീരെ വിട്ടുപോകുമ്പോൾ പ്രകൃതിദത്ത വെളിച്ചം വിട്ടുപോകുമ്പോൾ അവന്റെ ബാഗി വസ്ത്രങ്ങളിൽ വലിയ വസ്ത്രങ്ങളിൽ പതിവ് ചാക്കിൽ ആ പ്രത്യേക ചിത്രം ഒരു ഭയം സൃഷ്ടിക്കും എന്റെ മനസ്സിൽ വീടിന്റെ മൂല ഏത് മുറിയിലും ഒരു നാമമാത്രമായ ഇടമാണ് പ്രത്യേകിച്ചും ആ മൂല ഒരു ഇരുട്ടാണെങ്കിൽ വിചിത്രമായ വസ്ത്രങ്ങൾ ധരിച്ച കൂറ്റൻ അഫ്ഗാനുമായുള്ള ഇരുണ്ട മൂലയുടെ ബന്ധം യാന്ത്രികമായി സഹജമായ ഒരുതരം ഭയം ഉളവാക്കും ഈ കൊച്ചു പെൺകുട്ടി അവളുടെ സുഹൃത്തുമായി സന്തോഷകരമായ സംഭാഷണം നടത്തുകയും ചെയ്യുന്നത് കാണുമ്പോൾ എഴുത്തുകാരന്റെ മനസ്സിൽ തീർച്ചയായും അത് അടങ്ങിപ്പോകും ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് കഥയിലെ മറ്റൊരു സ്ഥലത്ത് കാബൂളിവാലയെ കണ്ടെത്തണമെങ്കിൽ അത് ചെയ്യുന്നതിന് നമ്മൾ കഥയുടെ അവസാന ഘട്ടത്തിലേക്ക് മടങ്ങേണ്ടതുണ്ട് കഥയുടെ അവസാനത്തിൽ കാബൂളിവാല വർഷങ്ങളോളം ജയിൽവാസത്തിന് ശേഷം തിരിച്ചെത്തി മിനിയുടെ വിവാഹദിനത്തിൽ അവൻ വരുന്നു ഇപ്പോൾ വളർന്ന് പ്രായമുള്ള പെൺകുട്ടിയുമായി വധുവുമായി നല്ല സംഭാഷണം നടത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല കാബൂളിവാല താൻ ഇനി ഈ കൊച്ചു പെൺകുട്ടിയുടെ അടുത്ത കൂട്ടാളിയല്ലെന്ന് മനസ്സിലാക്കുന്നു അത് അഫ്ഗാനിസ്ഥാനിൽ ദൂരെയുള്ള തന്റെ സ്വന്തം പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നു ഇവരും മിനിയെപ്പോലെ വളരുമായിരുന്നു അവളുടെ അച്ഛനുമായുള്ള ബന്ധത്തെക്കുറിച്ച് അവൾ മറന്നുപോയിരിക്കാം അങ്ങനെയിരിക്കെ ഈ സമയത്ത് എഴുത്തുകാരൻ മിനിയുടെ അച്ഛൻ കാബൂളിവാലയെ കാണുന്നു കൊൽക്കത്തയിലെ ഒരു ഇടവഴിയിൽ എന്റെ വീടിന്റെ തറയിൽ ഇരുന്നു റഹാമത്ത് കാബൂളിവാല ഭാവനയിൽ തുടരുന്നു അഫ്ഗാനിസ്ഥാനിലെ വരണ്ട കുന്നിൻ പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ കാണുന്നു അതിനാൽ ഈ പ്രത്യേക വ്യക്തി ഇപ്പോൾ ഒരു സാങ്കൽപ്പിക സഞ്ചാരിയായി മനസ്സിന്റെ സഞ്ചാരിയായി മാറിയിരിക്കുന്നു എഴുത്തുകാരനായ പിതാവിനെപ്പോലെ തന്റെ മാനസിക ഭൂപ്രകൃതിയിലൂടെ സഞ്ചരിക്കുന്നു ഇപ്പോൾ നമ്മൾ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കൾ കൂടി നോക്കണം ഈ കഥയിൽ അവർക്കുള്ള പ്രാധാന്യവും കഥയിൽ കാബൂളിവാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവും അവന്റെ ചാക്കിലാണ് അദ്ദേഹത്തിന് ഒരു ശേഷിയുള്ള ബാഗ് ഉണ്ട് ഇതിൽ തന്റെ ഉപഭോക്താക്കൾക്ക് വിൽക്കുന്ന ധാരാളം ഇനങ്ങൾ ഉണ്ട് മിനി ആദ്യമായി കാബൂളിവാലയെ കണ്ടപ്പോൾ അവളുടെ ഭയം ഈ വലിയ ചാക്കിനെയോ അല്ലെങ്കിൽ അയാൾ പതിവുപോലെ കൊണ്ടുപോകുന്ന വലിയ ബാഗിനെയോ ആയിരുന്നു ഈ അഫ്ഗാൻകാരന്റെ ബാഗിലൂടെ ആരെങ്കിലും നോക്കിയാൽ തന്നെപ്പോലെ ജീവിച്ചിരിക്കുന്ന നിരവധി കുട്ടികളെ അവിടെ കാണുമോ എന്ന ബാലിശമായ ഭയം തനിക്കുണ്ടെന്ന് എഴുത്തുകാരി പറയുന്നു അതിനാൽ അവൻ ഈ ചാക്കിൽ ധാരാളം കുട്ടികളെ വഹിക്കുന്നു എന്ന ബാലിശമായ ഭയം അവൾക്കുണ്ട് ഇത് ഒരു ബാലിശമായ ഭയമാണെന്ന് എഴുത്തുകാരൻ പറയുന്നത് വളരെ രസകരമാണ് പക്ഷേ അപ്പോൾ എഴുത്തുകാരനായ മിനിയുടെ പിതാവ് ഈ വസ്തുവിനെ എങ്ങനെയെങ്കിലും ഭയപ്പെടുന്നു സായാഹ്നത്തിന്റെ ഇരുട്ടിൽ അവന്റെ ബാഗി വസ്ത്രങ്ങളിലും പതിവ് ചാക്കിലും ഞാൻ നേരത്തെ വായിച്ച ആ ഉദ്ധരണി എന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ഭയം സൃഷ്ടിക്കും അതിനാൽ എങ്ങനെയെങ്കിലും അവർ ഈ വലിയ അഫ്ഗാൻ മനുഷ്യനുമായി ബന്ധപ്പെടുമ്പോൾ പ്രത്യേകിച്ച് വൈകുന്നേരം സന്ധ്യയിൽ ബാഗി വസ്ത്രങ്ങളും പതിവ് ചാക്കും ഭീഷണിപ്പെടുത്തുന്ന വസ്തുക്കളാണ് ഇത് ഒരു ബാലിശമായ ഭയമല്ല മുതിർന്നവരുടെ മനസ്സിലും ഉയർന്നുവരുന്ന ഒരു ഭയമാണ് കാരണം ഈ വസ്തുക്കൾ സ്വന്തം ക്ലാസിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ടതല്ല മറിച്ച് മറ്റെവിടെയെങ്കിലും നിന്നുള്ള അപരിചിതൻ കൊണ്ടുപോകുന്ന ആക്സസറികളുടെ ഭാഗമാണ് ഇപ്പോൾ ചാക്കിനോട് മിനിയുടെ മനോഭാവം മാറുന്നത് നമുക്ക് കാണാൻ കഴിയും കാരണം ഈ ചാക്കിനോട് മിനിക്കുള്ള പ്രതികരണം കാബൂളിവാല തന്നെ മാറ്റുന്നു അവൻ അത് എങ്ങനെ ചെയ്യുന്നുവെന്ന് നമുക്ക് നോക്കാം അതിനാൽ അവർ സുഹൃത്തുക്കളായിക്കഴിഞ്ഞപ്പോൾ പെൺകുട്ടി ചോദിക്കുന്നു 'കാബൂളിവാല ഓ കാബൂളിവാല നിങ്ങളുടെ ചാക്കിൽ എന്താണ് ഉള്ളത് ' നിങ്ങൾ അതിൽ എന്താണ് വഹിക്കുന്നത് കാബൂളിൽ നിന്നുള്ള പഴക്കടക്കാരനായ മനുഷ്യൻ വാക്കിനോട് അനാവശ്യമായ നാസികാശബ്ദം ചേർത്തുകൊണ്ട് റഹാമത്ത് ഹന്തി എന്ന് ഗർജ്ജിക്കും ആ മനുഷ്യന്റെ ചാക്കിൽ ആനയുണ്ടെന്നായിരുന്നു തമാശയുടെ സാരം അതിനാൽ ആ പ്രത്യേക ചാക്കിൽ കുട്ടികളുണ്ടെന്ന് അവൾ കരുതിയിട്ടുണ്ടായിരുന്ന ഘട്ടത്തിൽ നിന്ന് ചാക്കിൽ ആനയുണ്ടെന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ തന്നെ കൊണ്ടുവരുന്ന ഒരു മാറ്റമുണ്ട് കുട്ടികൾ ആനകളെ ഇഷ്ടപ്പെടുന്നുവെന്നും അവൻ പ്രത്യേക വാക്ക് തെറ്റായി ഉച്ചരിക്കുമ്പോൾ അത് സാഹചര്യത്തെ സന്തോഷിപ്പിക്കുമെന്നും നമ്മിൽ മിക്കവർക്കും അറിയാം തമാശ അത്ര രസകരമല്ലെന്ന് എഴുത്തുകാരൻ പറയുന്നു എന്നാൽ ഒരു ചെറിയ പെൺകുട്ടിക്ക് ഒരു വലിയ മനുഷ്യൻ ഒരു മൃഗത്തിന്റെ കുട്ടികൾക്ക് പ്രിയപ്പെട്ട മൃഗത്തിന്റെ പേരിന്റെ അനുനാസികമായ ഉച്ചാരണം നടത്തുന്നത് കാണുന്നു അത് ഒരുതരത്തിൽ രംഗം മാറ്റിമറിക്കുന്നു ഇത് ബാഗുമായി ബന്ധപ്പെട്ട ഭയം ഇല്ലാതാക്കുന്നു ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ചാക്ക് മറ്റൊന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അജ്ഞാതമായ നിഗൂഢമായ അപരിചിതമായ മാനദണ്ഡത്തിന് പുറത്തുള്ള ഒരു വസ്തുവാണ് ഒരു ബംഗാളി കുലീന കുടുംബത്തിന്റെ മാനദണ്ഡം അതുകൊണ്ടാണ് അവ കഥയുടെ ചില ഘട്ടങ്ങളിൽ ഭീകരതയുടെ വസ്തുക്കളായി മാറുന്നത് തന്റെ വ്യക്തിപരമായ പ്രവർത്തനങ്ങളിലൂടെ ചുറ്റുമുള്ള ആളുകളുടെ മനോഭാവം മാറ്റാൻ ബാഗിന്റെ ഉടമ അത് ചെയ്യുന്നു ഈ പ്രത്യേക ചാക്കോ ബാഗോ നാടോടികൾ പെഡലർമാർ മൊബൈൽ ആളുകൾ നിരന്തരം യാത്ര ചെയ്യുന്ന ആളുകൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്ന ആളുകൾ എന്നിവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതും നാം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ആളുകൾക്ക് അവരുടെ പേരുകളിൽ സമ്പന്നമായ പദവി ഇല്ല അതിനാൽ ദാരിദ്ര്യത്തിന്റെയും ചലനാത്മകതയുടെയും സംയോജനം സമൂഹത്തിലെ ഈ വിഭാഗങ്ങൾക്ക് സംശയാസ്പദമായ ഒരു പ്രഭാവലയം നൽകുന്നു ഇനി നമുക്ക് കാബൂളിവാലയുടെ ചാക്കിനെക്കുറിച്ചുള്ള ആശയം തുടരാം കാരണം ഈ കഥയുടെ അവസാനത്തിൽ ഈ പ്രത്യേക ചാക്കിന്റെ അഭാവം രംഗത്തിനെ പ്രത്യേകിച്ച് വിഷമിപ്പിക്കുന്നതാണ് ഇത് നമുക്ക് കണ്ടെത്താനാകുന്ന ഉദ്ധരണിയാണ് അവൻ വിവാഹദിനത്തിൽ എത്തുന്നു ഇപ്പോൾ വധുവായ ഈ കൊച്ചു പെൺകുട്ടി മിനിയുമായുള്ള ബന്ധം പുനരുജ്ജീവിപ്പിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല അവന്റെ ബാല്യ കാല സുഹൃത്തിന് ഈ കൊച്ചു പെൺകുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കാനുണ്ട് ഞാൻ നിങ്ങൾക്ക് വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്ധരണിയാണിത് അദ്ദേഹം പറയുന്നു "ഓർക്കുന്നു" എഴുത്തുകാരൻ പറയുന്നു "അവരുടെ മുൻകാല സൌഹൃദം ഓർത്ത് അവൻ ഒരു പെട്ടി മുന്തിരിയും കുറച്ച് ഉണക്കമുന്തിരിയും ഒരു പാക്കറ്റിൽ പൊതിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഏതെങ്കിലും അഫ്ഗാൻ സുഹൃത്തിൽ നിന്ന് കടം വാങ്ങിയിരിക്കണം കാരണം അവന്റെ സ്വന്തം ചാക്ക് അവന്റെ പക്കൽ ഇല്ലായിരുന്നു സാധാരണയായി ബാഗി വസ്ത്രങ്ങളിലും പതിവ് ചാക്കിലും കാണുന്ന ഈ ഭീമൻ അഫ്ഗാൻ മനുഷ്യൻ പെട്ടെന്ന് ആ വലിയ ബാഗില്ലാതെ വരുന്നത് ശ്രദ്ധിക്കുന്നത് വളരെ ഹൃദയസ്പർശിയാണെന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒപ്പം ചാക്ക് കയ്യിൽ ഇല്ലാതിരുന്നിട്ടും ഒരു പെട്ടി മുന്തിരിയും കുറച്ച് ഉണക്കമുന്തിരിയും കിട്ടി അവൻ ഒരു പാക്കറ്റിൽ പൊതിഞ്ഞിരിക്കുന്നു കാരണം ഈ കൊച്ചു പെൺകുട്ടിക്ക് ഈ വസ്തുക്കളോട് താൽപ്പര്യമുണ്ടെന്ന് അവനറിയാം മാത്രമല്ല അവൾക്ക് ആവശ്യമുള്ളപ്പോൾ ഇവ തന്റെ പക്കൽ ഉണ്ടെന്ന് ഉറപ്പാക്കാൻ അവൻ ആഗ്രഹിക്കുന്നു ബാഗിന്റെ അഭാവത്തിലും മുന്തിരിയുടെയും കുറച്ച് ഉണക്കമുന്തിരിയുടെയും സാന്നിധ്യത്തിൽ രംഗം വളരെ വികാരഭരിതവും വൈകാരികവുമാണ് കാണാതായതും ഇപ്പോഴുള്ളതുമായ ഈ വസ്തുക്കൾ പിതാവ് ശ്രദ്ധിക്കുന്നു തന്റെ മകൾക്കായി ഈ മധുരപലഹാരങ്ങൾ ഏതോ അഫ്ഗാൻ സുഹൃത്തിൽ നിന്ന് കടം വാങ്ങിയതായിരിക്കുമെന്ന് അദ്ദേഹം ഊഹിക്കുന്നു സ്വന്തം മകൾക്ക് ഈ പെട്ടി മുന്തിരിയും കുറച്ച് ഉണക്കമുന്തിരിയും കിട്ടാൻ അവൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാകണം ഇനി കാബൂളിവാല എന്ന എഴുത്തുകാരനും സഞ്ചാരിയും തമ്മിലുള്ള ബന്ധത്തെ സംഗ്രഹിക്കാം മിനിയുടെ അച്ഛൻ ഒരു മനസ്സ് സഞ്ചാരിയാണ് സ്വന്തം വീടിനുള്ളിലെ പ്രവാസിയാണെന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുമെങ്കിലും വ്യക്തിപരമായി ഞാൻ ഒരിക്കലും കൊൽക്കത്തയിൽ നിന്ന് അകന്നിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു അതിനാലാണ് എന്റെ മനസ്സ് എപ്പോഴും ലോകമെമ്പാടും അലയുന്നത് മറ്റിടങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ മനസ്സ് നിരന്തരം ഇഷ്ടപ്പെടുന്നതിനാൽ ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ പ്രവാസിയാണ് കാബൂളിവാലയുടെ കാര്യത്തിൽ നേരെ മറിച്ചാണ് അവൻ യഥാർത്ഥ പ്രവാസിയാണ് അവൻ സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം നാട്ടിൽ നിന്നും പ്രവാസിയാണ് അതേസമയം മിനിയുടെ അച്ഛൻ വീട്ടിലുണ്ട് അവൻ പ്രവാസിയല്ല നാട്ടിൽ തന്നെയാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതിനാലാണ് മറ്റിടങ്ങളിൽ നിന്നുള്ള ഒരു രൂപക പ്രവാസം എന്ന് സ്വയം വിളിക്കുന്നത് ഇനി ഈ പ്രത്യേക സഞ്ചാരിയിലൂടെ എഴുത്തുകാരന് ലഭിക്കുന്ന ആസ്വാദനങ്ങൾ എന്തൊക്കെയാണ് കാബൂളിവാലയുമായുള്ള സൌഹൃദത്തിൽ നിന്ന് അയാൾക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആസ്വാദനം സഞ്ചാരി അവനോട് പറയുന്ന കഥകളാണ് കാബൂളിവാല മുറിഞ്ഞ ബംഗാളിയിൽ തന്റെ മാതൃരാജ്യത്തിന്റെ കഥകൾ പറഞ്ഞു അതിനാൽ അദ്ദേഹം ഈ എഴുത്തുകാരനോട് കഥകൾ പറയുന്നു അതേസമയം അദ്ദേഹം എഴുത്തുകാരന്റെ മകൾക്ക് മുന്തിരിയും ഉണക്കമുന്തിരിയും നൽകുന്നു അതിനാൽ മകൾക്ക് കാബൂളിവാലയുമായി വ്യത്യസ്തമായ ഒരു ബന്ധമുണ്ട് യാത്രക്കാരന് പിതാവുമായി മറ്റൊരു തരത്തിലുള്ള ബന്ധമുണ്ട് ഞാൻ എല്ലാം എന്റെ കൺമുന്നിൽ വിഭാവനം ചെയ്തു ഞാൻ അർത്ഥമാക്കുന്നത് കഥ പറയൽ വളരെ ശക്തമാണ് ശ്രോതാവിന് അവന്റെ കൺമുന്നിൽ എല്ലാം സങ്കൽപ്പിക്കാൻ കഴിയും അപ്പോൾ അവൻ പറയുന്ന കഥകൾ എന്തൊക്കെയാണ് അവൻ പറയുന്നു "ഇരുവശവും ഉയരമുള്ള പരുക്കൻ കടന്നുപോകാൻ കഴിയാത്ത പർവതങ്ങൾ കൊടും ചൂടിൽ ചുവന്ന ചൂടുള്ള ഇടുങ്ങിയതും പൊടി നിറഞ്ഞതുമായ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു യാത്രാസംഘം തലപ്പാവു ധരിച്ച വ്യാപാരികളും യാത്രക്കാരും കടന്നുപോകുന്നു ചിലർ ഒട്ടകപ്പുറത്ത് മറ്റുള്ളവർ കാൽനടയായി ചിലർ കുന്തങ്ങളും മറ്റു ചിലർ കാലഹരണപ്പെട്ട ഫ്ലിൻറ് സ്റ്റോൺ തോക്കുകളും വഹിക്കുന്നു അതിനാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഈ സഞ്ചാരി തന്റെ മാതൃരാജ്യത്തെക്കുറിച്ചുള്ള കഥകൾ പറയുന്നു ഒരുപക്ഷേ അത് അവന്റെ മാതൃരാജ്യത്തെക്കുറിച്ചാണെന്ന് നമുക്ക് അനുമാനിക്കാം കാരണം അത് ചൂടുള്ള കൊടുങ്കാറ്റുള്ള വരണ്ട രാജ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അത് പർവതങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു അത് യാത്രാസംഘങ്ങളിൽ സഞ്ചരിക്കുന്ന ആളുകളെക്കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്ന ആളുകളാൽ നിറഞ്ഞിരിക്കുന്നു ചില ആളുകൾ കാൽനടയായി നടക്കുന്നു അവർ ചിലപ്പോൾ അടിസ്ഥാനപരമായ ആയുധങ്ങളും അവർക്കൊപ്പം കൊണ്ടുപോകുന്നു ഉദാഹരണത്തിന് കാലഹരണപ്പെട്ട തോക്കുകൾ അതിനാൽ ചൂടുള്ള വരണ്ട വരണ്ട പ്രദേശത്തെ സഞ്ചാരികളുടെ ഒരു പ്രാകൃത സമൂഹത്തെക്കുറിച്ചാണ് ആഖ്യാനമെന്ന് നമ്മോട് പറയുന്ന സൂചനകളാണിത് ഇത് മിനിയുടെ പിതാവിനെ തീർത്തും ആകർഷിച്ചു ഈ വാചകം തിരഞ്ഞെടുക്കുന്നത് നോക്കുക ഉച്ചത്തിൽ കർശനമായ രീതിയിൽ പ്രഖ്യാപനപരമായ രീതിയിൽ പറഞ്ഞു നമ്മൾ ശ്രദ്ധിക്കേണ്ട അദ്ദേഹത്തിന്റെ മുറിയൻ ബംഗാളി ഉണ്ടായിരുന്നിട്ടും പ്രേക്ഷകർ ഇവിടെ മിനിയുടെ അച്ഛൻ ആ ആഖ്യാനത്താൽ ആകർഷിക്കപ്പെടുന്നു എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് കഥയ്ക്കുള്ളിലെ ഈ കഥയുടെ സ്വാധീനം നോക്കാം ഞാൻ ഇതിനെ കഥയ്ക്കുള്ളിലെ കഥ എന്ന് വിളിക്കുന്നു എന്നാൽ യഥാർത്ഥ വിവരണം കാബൂളിവാലയുടെ മാതൃരാജ്യത്തെക്കുറിച്ചുള്ള സ്ഥല വിവരണമായിരിക്കും അദ്ദേഹം വിവരിക്കുന്ന പരുക്കൻ ഭൂപ്രദേശങ്ങൾ വിചിത്രമാണ് കാരണം ഒട്ടകങ്ങളുണ്ട് പ്രാകൃത ആയുധങ്ങൾ വഹിക്കുന്ന ആദിമ മനുഷ്യരുണ്ട് കാബൂളിവാല വിവരിക്കുന്ന ഈ പ്രാകൃത സഞ്ചാരി സമൂഹം ഈ പ്രത്യേക വിവരണത്തെ എങ്ങനെയെങ്കിലും വിചിത്രമാക്കുന്നു പ്രതാബ് സിംഗ് ഉയർന്ന ബാൽക്കണിയിൽ നിന്ന് ചാടുന്നതിനെ കുറിച്ച് പറയുന്ന തന്റെ നോവലിന്റെ പതിനേഴാം അധ്യായത്തിൽ പിതാവ് കൊണ്ടുവന്ന ആഖ്യാനവും ഈ വിവരണവും തമ്മിൽ ഒരു സാമ്യം നമുക്ക് കാണാൻ കഴിയും അതിനാൽ നമുക്ക് ഇവിടെ സമാന്തരങ്ങൾ കാണാൻ കഴിയും ഇവിടെ ഒന്നിലധികം എഴുത്തുകാർ ഉണ്ട് ഈ പ്രത്യേക കഥയിൽ ഒന്നിലധികം കഥാകാരന്മാരുണ്ട് ശ്രദ്ധിച്ചതിന് നന്ദി അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളെ കാണും